നമസ്കാരം അപ്പോൾ ഇന്ന് സർവീസ് മാർക്കറ്റിംഗ് എ പ്രാക്ടിക്കൽ അപ്പ്രോച്ച് എന്ന നമ്മുടെ കോഴ്സിന്റെ അവസാനത്തെ സെഷനിൽ ആണ് ഇത് കേസ് സ്റ്റഡി നമ്പർ 5 ആണ് ഇതോടുകൂടി നമ്മൾ കേസ് സ്റ്റഡികൾ അവസാനിപ്പിക്കുകയാണ് അതിനാൽ ഇത് വിദ്യാഭ്യാസ വിപുലീകരണ സേവനങ്ങളാണ് അതിനാൽ നമ്മൾ വിദ്യാഭ്യാസ സേവന വിപണനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു ആമുഖമെന്ന നിലയിൽ വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഈ വിപണനം വിശാലമായ പരിരക്ഷയുള്ള ഒരു വിഷയമാണ് ഇത് സ്കൂൾ പ്രായത്തിൽ ആരംഭിച്ച് ഇന്റർമീഡിയറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് വളരുന്നു വിദ്യാഭ്യാസത്തെ ശുദ്ധമായ സേവനമായി തരംതിരിച്ചിരിക്കുന്നു നൽകുന്ന പുസ്തകങ്ങളും മറ്റും കൂടാതെ ബാക്കി സേവനങ്ങൾ ഉദ്ദേശിച്ചുള്ളതാണ് വിദ്യാഭ്യാസ സേവനങ്ങളുടെ വിപണനം മനസ്സിലാക്കുന്നതിനുമുമ്പ് വിദ്യാഭ്യാസത്തെ ഒരു സേവനമായി നാം മനസ്സിലാക്കണം Refer slide time 0113 അതിനാൽ വിദ്യാഭ്യാസത്തിന് 7P കൾ ഉണ്ട് സേവനമെന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് അസ്ഥിരത നശിക്കൽ വേർപിരിയൽ വേരിയബിളിറ്റി എന്നീ നാല് സവിശേഷതകൾ ഉണ്ടായിരിക്കും അതിനാൽ വിദ്യാഭ്യാസം അദൃശ്യമായ ആനുകൂല്യങ്ങളായ അറിവ് അഭിരുചി വൈദഗ്ദ്ധ്യം നൈപുണ്യങ്ങൾ എന്നിവ അടിസ്ഥാന സൌകര്യങ്ങളുടെയും അധ്യാപന ഉപകരണങ്ങളുടെയും ഫാക്കൽറ്റി വൈദഗ്ധ്യത്തിന്റെയും അദൃശ്യമായത് സഹായത്തോടെ നൽകുന്നു അതിനാൽ അടുത്തതായി നമുക്ക് നശിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വിദ്യാഭ്യാസത്തിൽ ഉല്പാദനവും ഉപഭോഗവും ഒരേസമയം നടക്കുന്ന പ്രവർത്തനങ്ങളാണ് വേർതിരിക്കാനാവാത്തത് സേവന ദാതാവിൽ നിന്ന് സേവനം വേർതിരിക്കുന്നത് അസാധ്യമാണ് അധ്യാപകന്റെ പങ്കാളിത്തം സേവന ഡെലിവറിയുടെ ഒരു പ്രധാന ഘടകമാണ് അതിനാൽ അപേക്ഷിക്കാൻ സ്ഥാപനം തിരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡം സ്ഥാപനത്തിന്റെ പ്രശസ്തി അപേക്ഷകരുടെ എണ്ണം പ്ലേസ്മെന്റ് റെക്കോർഡ് ഫാക്കൽറ്റി കോഴ്സുകളുടെ ശ്രേണി ഫീസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് വരാനിരിക്കുന്ന ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഒരു സ്ഥാപനത്തിന് അപേക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അപേക്ഷിക്കാൻ തിരഞ്ഞെടുക്കുന്ന എല്ലാ പോയിന്റുകളും ഇവയാണ് വിദ്യാഭ്യാസ സേവന വിപണനത്തിലെ സേവന മിശ്രിതം സേവന വിപണന മിശ്രിതത്തിന്റെ ഈ ഏഴ് ഘടകങ്ങളുണ്ട് ആദ്യം ഉൽപ്പന്നം അതാണ് ശ്രേണി ഗുണനിലവാരം ബ്രാൻഡ് നാമം പ്ലെയ്സ്മെന്റുകൾ പരിശീലനം വർക്ക്ഷോപ്പ് സെമിനാർ അതിനാൽ ഇവ വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഫീസ് പേയ്മെന്റ് നിബന്ധനകൾ ഡിസ്കൌണ്ടുകൾ സ്കോളർഷിപ്പുകൾ തിരിച്ചറിഞ്ഞ മൂല്യം മറ്റ് സൌകര്യം പ്ലേസ്മെന്റ് റെക്കോർഡ് ഉടമസ്ഥാവകാശ തരം എന്നിവ പൊതുവായതോ സ്വകാര്യമോ ആയ വിലകൾ അതിനാൽ പൊതുവായതോ സ്വകാര്യമോ എന്നതിനെ അടിസ്ഥാനമാക്കി സാധാരണയായി സ്വകാര്യ സ്കൂളുകൾ സർക്കാർ പിന്തുണയ്ക്കുന്ന പൊതു സ്കൂളുകളേക്കാൾ ഉയർന്ന വില ഈടാക്കും സ്ഥലം ഇടം പ്രവേശനക്ഷമത ഓൺലൈൻ ക്ലാസുകൾ വിദൂര വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സേവനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള മാർഗമാണിത് അതിനാൽ പരസ്യം പബ്ലിസിറ്റി വാമൊഴി പബ്ലിക് റിലേഷൻ അത്തരം ഹോർഡിംഗുകൾ പോലുള്ള പ്രമോഷൻ നമുക്ക് വിദ്യാഭ്യാസ സേവനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു പ്രത്യേക സേവനത്തെക്കുറിച്ച് ആശയവിനിമയം നടത്താനോ ഉപയോഗിക്കാം വിദ്യാഭ്യാസ സേവന മിശ്രിതത്തിൽ ആളുകൾ വളരെ പ്രധാനമാണ് അവർ അധ്യാപക ജീവനക്കാർ അധ്യാപകേതര ജീവനക്കാർ യോഗ്യത വ്യക്തിപരമായ പെരുമാറ്റം വ്യക്തിഗത പരിശീലനം എന്നിവയാണ് അതിനാൽ ഇവയെല്ലാം പ്രധാനമാണ് ബിൽഡിംഗ് ലോഗോ ലൈബ്രറി ലാബ് കഫറ്റീരിയ കമ്പ്യൂട്ടറുകൾ അധ്യാപന സഹായങ്ങൾ വൈഫൈ തുടങ്ങിയ ഭൌതിക തെളിവുകൾ ഇവയാണ് ഭൌതിക തെളിവുകളുടെ ഭാഗങ്ങൾ പ്രക്രിയ രജിസ്ട്രേഷൻ പ്രവേശനം ഓൺലൈൻ പതിവ് ക്ലാസ് റൂം വിദ്യാഭ്യാസം വിദൂര പഠനം പരീക്ഷ മൂല്യനിർണ്ണയം അങ്ങനെ ഇവ വിദ്യാഭ്യാസ സേവനങ്ങളുടെ ചില പ്രക്രിയകളാണ് വിദ്യാഭ്യാസ സേവനങ്ങളുടെ എല്ലാ പി കളും വളരെ സൂക്ഷ്മമായി നോക്കേണ്ടതാണ് കൂടാതെ പ്രശസ്തിക്കും വിദ്യാർത്ഥികൾക്ക് ഒരു പ്രത്യേക സേവനം തിരഞ്ഞെടുക്കുന്നതിനും വിദ്യാഭ്യാസ സേവനങ്ങളിൽ മുൻനിരയിൽ ആയിരിക്കണം ചുരുക്കത്തിൽ ഇന്നത്തെപ്പോലെ വിദ്യാഭ്യാസം ഒരിക്കലും ഒരു പ്രധാന മേന്മയായിരുന്നില്ല ഈ വ്യവസായത്തിൽ ഡിമാൻഡ് എല്ലായ്പ്പോഴും സപ്ലൈയേക്കാൾ കൂടുതലാണ് അതിനാൽ നിരവധി സ്വകാര്യ കമ്പനികൾ ഈ മാർക്കറ്റിൽ അവസരം നേടാൻ പ്രവേശിക്കുന്നു സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വലിയ വ്യത്യാസമുണ്ട് വിദ്യാഭ്യാസ സേവനങ്ങളുടെ വിപണനം സാമൂഹിക വിപണനമാണ് പക്ഷേ അത് അതിവേഗം വളരുകയും പ്രത്യേകിച്ച് സാങ്കേതിക പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ലാഭകരമായ വ്യവസായമായി മാറുകയും ചെയ്യുന്നു ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ ഈ വ്യവസായത്തിലെ നിർണായക ഘടകമാണ് അതിനാൽ നമ്മൾ ആളുകൾ അധ്യാപകരും വിദ്യാഭ്യാസ അഡ്മിനിസ്ട്രേറ്റർമാരും നല്ലവരാണെങ്കിൽ അവർ സേവനങ്ങൾ നൽകുകയും സ്ഥാപനത്തിന്റെ പേര് ജനങ്ങൾ അംഗീകരിക്കുകയും നല്ലൊരു ബിരുദം നേടുന്നതിന് വിദ്യാർത്ഥികൾ അത്തരം അംഗീകൃത സ്ഥാപനങ്ങളിൽ ചേരാൻ ശ്രമിക്കുകയും ചെയ്യും വിദ്യാഭ്യാസവും വിപുലീകരണ സേവനങ്ങളും തുടർന്ന് പരിശീലന സേവന വിപണനം ഉണ്ട് ഇപ്പോൾ പരിശീലനം ഒരു പ്രത്യേക ജോലി നിർവഹിക്കുന്നതിനുള്ള കഴിവുകൾ നൽകുകയോ മെച്ചപ്പെടുത്തുകയോ ആണ് മാനവവിഭവശേഷി മാനേജ്മെന്റിന്റെ നിർണായക ഘടകമാണിത് മിക്ക സ്ഥാപനങ്ങളിലും ഒരു പരിശീലന വികസന വകുപ്പുണ്ട് എന്നിരുന്നാലും സ്വതന്ത്ര പരിശീലന സംഘടനകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ട് പരിശീലന പ്രൊഫഷണലുകൾ നല്ല വിപണനക്കാരല്ലെന്ന് ഒരു പൊതു അനുമാനമുണ്ട് ഇത് കുറഞ്ഞ ശമ്പളത്തിനും മോശം വിശ്വാസ്യതയ്ക്കും കാരണമായേക്കാം ഒരു പ്രത്യേക ജോലി നിർവഹിക്കുന്നതിനുള്ള കഴിവുകൾ നൽകുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ ആണ് പരിശീലനം അതിനാൽ പരിശീലനത്തിന്റെ ഈ ഘട്ടങ്ങൾ പ്രീ ജോബ് ഇൻഡക്ഷൻ ഓൺ ദി ജോബ് ബേസിക് സ്പെഷ്യലൈസ്ഡ് ബേസിക് മാനേജ്മെന്റ് സ്പെഷ്യലൈസ്ഡ് മാനേജ്മെന്റ് ടോപ്പ് മാനേജ്മെന്റ് എന്നിവയാണ് അതിനാൽ ഇവ പരിശീലനത്തിന്റെ ഏഴ് ഘട്ടങ്ങളാണ് Refer Slide time 0649 പരിശീലന സേവനങ്ങളുടെ 7P കൾ ഉൽപ്പന്നം പരിശീലന രീതി പ്രോഗ്രാമിന്റെ ദൈർഘ്യം ഷെഡ്യൂൾ പരിശീലകർ കഴിവുകൾ അധ്യാപന സഹായങ്ങൾ തുടങ്ങിയവയാണ് ജോലിസ്ഥലത്ത് ജോലിക്ക് പുറത്തുള്ള സ്ഥലം ഇടം സംവേദനാത്മക വീഡിയോ ഓൺലൈൻ ക്ലാസ് റൂം ബജറ്റ് ഫീസ് പരിശീലക ചെലവ് ലൈൻ മാനേജർ ചെലവ് മറ്റ് ചെലവുകൾ എന്നിവ വിലയിൽ ഉൾപ്പെടുന്നു വ്യക്തിഗത വിൽപ്പന പബ്ലിക് റിലേഷൻസ് സൌജന്യ സെമിനാർ വർക്ക്ഷോപ്പ് മെയിൽ വാർത്താക്കുറിപ്പുകൾ എന്നിവയാണ് പ്രമോഷൻ വിദ്യാഭ്യാസ സേവന വിപണനത്തിലെന്നപോലെ ഇവ വളരെ നിർണായകമാണ് അതിനാൽ ഇവിടെ പരിശീലകൻ പിന്തുണയ്ക്കുന്ന ജീവനക്കാർ പരിശീലകന്റെ വ്യക്തിത്വം പെരുമാറ്റം പ്രചോദനം എന്നിവ വളരെ പ്രധാനമാണ് ജനങ്ങളുടെ സ്പെഷ്യലൈസേഷൻ വളരെ പ്രധാനമാണ് പ്രക്രിയ ആവശ്യമുള്ള ജനറേഷൻ പരിശീലനം വിലയിരുത്തൽ ഫീഡ്ബാക്ക് ഇവയാണ് പ്രധാന പ്രക്രിയ ശാരീരിക തെളിവുകൾ അതാണ് പരിശീലന ഉപകരണങ്ങൾ സ്ഥാനം ഇൻഫ്രാസ്ട്രക്ചർ പരിശീലന സാമഗ്രികൾ വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഗുണനിലവാരം അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പരിശീലന സേവനങ്ങളുടെ ഭൌതിക തെളിവുകളുടെ പ്രധാന ഭാഗങ്ങളാണ് ഇവ Refer Slide time 0808 ചുരുക്കത്തിൽ സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു അതിനാൽ പരിസ്ഥിതിയിലെ അനിശ്ചിത മാറ്റങ്ങളെ നേരിടാൻ ശരിയായ പരിശീലനം ആവശ്യമാണ് പുതിയ അറിവുകൾ ലളിതവും ഫലപ്രദവുമായ രീതിയിൽ പഠിപ്പിക്കാൻ പരിശീലകൻ കാര്യക്ഷമമായിരിക്കണം അവർ ആക്ടിവിറ്റി ട്രാപ്പിൽ നിന്ന് മാറി ഫലപ്രാപ്തിയുള്ളവരായിരിക്കണം പരിശീലകർ സെമിനാറുകളിലൂടെയും സംവേദനാത്മക സെഷനുകളിലൂടെയും പരിശീലനം പ്രോത്സാഹിപ്പിക്കണം ക്ലയന്റുകളുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി അവർ കാര്യക്ഷമമായ പരിശീലന രീതികൾ സജ്ജമാക്കണം അടുത്തതായി നമ്മൾ വിദ്യാഭ്യാസ വിപുലീകരണ സേവനങ്ങളിലേക്ക് വരുന്നു അതിനാൽ കാർഷിക വിപുലീകരണ സേവനങ്ങൾ Refer slide time 0845 ഇപ്പോൾ ഇന്ത്യയിൽ 75 ത്തിലധികം ജനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നു കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളുമാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗം കാർഷിക സാങ്കേതികവിദ്യയിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഗുണമേന്മയുള്ള ഇൻപുട്ടുകളുടെ ലഭ്യതയും ഔട്ട്പുട്ടിന്റെ കാര്യക്ഷമമായ വിതരണവും ഉറപ്പാക്കാൻ സമയം ആവശ്യമാണ് ഇക്കാലത്ത് ആധുനിക കാർഷിക സാങ്കേതികവിദ്യകൾ പരമ്പരാഗത കാർഷിക രീതികളെ മാറ്റിസ്ഥാപിക്കുന്നു കാർഷികോത്പാദനം പരമാവധിയാക്കാൻ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ കൂടുതൽ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തണം ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ICAR NGO വ്യവസായ ഗ്രൂപ്പുകൾ ഗ്രാമീണ വികസന സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവ കാർഷിക വിപുലീകരണ സേവനങ്ങളുടെ പ്രധാന പ്രോത്സാഹകരാണ് സർക്കാർ വിപുലീകരണ പരിപാടി കാർഷിക ക്ലയന്റുകൾ കാർഷിക വ്യാപാര കേന്ദ്രങ്ങൾ കിസാൻ കോൾ സെന്ററുകൾ വിപുലീകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാതൃകാ പരിശീലന കോഴ്സ് എംകിസാൻ പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വികസനം എന്നിവയ്ക്ക് പിന്തുണ നൽകുന്ന ആറ് പ്രധാന ഭാഗങ്ങൾ സർക്കാർ കാർഷിക വിപുലീകരണ പരിപാടിയിൽ ഉണ്ട് അതിനാൽ ഇൻപുട്ട് വ്യവസായത്തിന്റെ കാർഷിക വിപുലീകരണ സേവനങ്ങൾ വിതരണക്കാർക്കിടയിൽ രാസവള വ്യവസായത്തിന് വലിയ പങ്കുണ്ട് തുടർന്ന് കീടനാശിനികളും വിത്ത് വ്യവസായവും ഉണ്ട് സാമ്പിൾ വിശകലനത്തിലൂടെയും പ്രമോഷണൽ കാമ്പെയ്നുകളിലൂടെയും അവർ ഗുണനിലവാര ഉറപ്പ് സേവനങ്ങൾ നൽകുന്നു നിരവധി ഇൻപുട്ട് ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് വളങ്ങൾ വിത്തുകൾ കീടനാശിനികൾ എന്നിവയുടെ വിശകലനത്തിന് ഈ കേന്ദ്രങ്ങൾ സഹായിക്കുന്നു ഈ ഇൻപുട്ടുകളുടെ ഉൽപാദന സംഭരണത്തിലും ഈ കേന്ദ്രങ്ങൾ സഹായിക്കുന്നു അതിനാൽ വിപുലീകരണ വിദ്യാഭ്യാസ സേവനങ്ങൾക്ക് പ്രകടനങ്ങൾ ബഹുജന സമ്പർക്ക പ്രവർത്തനം വാട്ടർ മാനേജ്മെന്റ് എനർജി മാനേജ്മെന്റ് കന്നുകാലി മാനേജ്മെന്റ് കന്നുകാലി പ്രോഗ്രാമുകൾ ശക്തിപ്പെടുത്തുന്ന ഇൻപുട്ട് വിതരണം എന്നിവയുണ്ട് Refer Slide time 1042 കൃഷിക്കൊപ്പം പ്രത്യേക കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും പല സന്ദർഭങ്ങളിലും വികസിക്കുന്നു അതിനാൽ എൻജിഒ അല്ലെങ്കിൽ ആരെങ്കിലും ഗ്രാമം ദത്തെടുക്കൽ ഗ്രാമ വികാസ് പദ്ധതി നീർത്തട വികസന പദ്ധതി കാർഷിക വന പദ്ധതികൾ കർഷക സാമൂഹിക കേന്ദ്രങ്ങൾ കർഷക സംയോജന പരിപാടി പ്രത്യേക പദ്ധതികൾ അതിനാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാർഷിക വിപുലീകരണം ബന്ധപ്പെട്ട വ്യവസായങ്ങളും എൻജിഒയും പിന്തുണയ്ക്കുന്ന ഒരു ദേശീയ മുൻഗണനയാണ് സാങ്കേതികവിദ്യയുടെ പുരോഗതിയോടെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ സ്വതന്ത്ര ഒഴുക്ക് ആവശ്യമാണ് കർഷകരുടെ സാങ്കേതിക അറിവ് വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കർഷകന് വിവരമില്ലാത്തതിനാൽ കാർഷിക വിപുലീകരണ സേവന പ്രോത്സാഹനമാണ് എല്ലാവരിലും നിർണായക ഘടകം പിന്നീട് നമ്മൾ സോഷ്യൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പബ്ലിക് സർവീസ് മാർക്കറ്റിംഗ് പോലുള്ള പൊതു സേവനങ്ങളിലേക്ക് വരുന്നു അതിനാൽ ആമുഖം സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന പദം 1971 ൽ അവതരിപ്പിച്ചു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും മൊത്തത്തിലുള്ള പ്രയോജനത്തിനായി ആളുകളുടെ പെരുമാറ്റം നിലനിർത്തുന്നതിനുള്ള ഒരു സമീപനമാണ് സോഷ്യൽ മാർക്കറ്റിംഗ് പ്രായോഗികമായി പൊതു സേവന വിപണനവും സാമൂഹിക വിപണനവും സമാനമാണ് വികസ്വര വിപണികൾക്ക് ഇത് കൂടുതൽ പ്രസക്തമാണ് പ്രക്രിയ പ്രശ്നം തിരിച്ചറിയൽ വസ്തുനിഷ്ഠമായ ക്രമീകരണം വിപണി വിഭജനം ഉപഭോക്തൃ വിശകലനം വിപണന തന്ത്ര വികസനം നടപ്പാക്കൽ വിലയിരുത്തൽ എന്നിവ പ്രക്രിയയുടെ ഭാഗമാണ് സോഷ്യൽ മാർക്കറ്റിംഗ് മിശ്രിതം ഉൽപ്പന്നം പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ആളുകൾ വിശ്വസിക്കണം പരിശീലനങ്ങൾ ആശയങ്ങൾ കൂടിയാലോചന സേവനം എന്നിവയാണ് ഉൽപ്പന്നത്തിന്റെ പ്രധാന ഘടകങ്ങൾ പണം പരിശ്രമം സമയം മറ്റേതെങ്കിലും വിഭവങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾ നൽകേണ്ട വില അല്ലെങ്കിൽ നൽകണം സർക്കാർ ഓഫീസുകൾ ബഹുജന മാധ്യമ പ്രചാരണം വെബ്സൈറ്റുകൾ ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനുകൾ എന്നിവയാണ് മാർക്കറ്റിംഗ് മിശ്രിതത്തിന്റെ പ്രധാന ഉറവിടം പ്രമോഷൻ ടെലിവിഷൻ ഇന്റർനെറ്റ് റേഡിയോ പോസ്റ്ററുകൾ ലഘുലേഖകൾ ഡയറക്ട് മെയിൽ പത്രങ്ങൾ ഇവയാണ് പ്രമോഷണൽ സോഷ്യൽ മാർക്കറ്റിംഗിന്റെ പ്രധാന ഭാഗം Refer Slide time 1250 അതിനാൽ ഉൽപ്പന്നം ഷെയർ ബോണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപ കൺസൾട്ടേഷൻ നികുതി ആനുകൂല്യ ഫണ്ട് തുടങ്ങിയവയാണ് വില ബ്രോക്കറേജ് സേവന നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി കസ്റ്റഡി ചാർജ് കിഴിവ് പ്രോസസ്സിംഗ് ഫീസ് സ്ഥലം ഇന്റർനെറ്റ് ടെലിമാർക്കറ്റിംഗ് ബ്രോക്കർമാർ ഏജന്റുമാർ സെയിൽസ് ഫോഴ്സ് പ്രമോഷൻ പരസ്യം നേരിട്ടുള്ള വിപണനം വ്യക്തിഗത വിൽപ്പന സോഷ്യൽ മീഡിയ ആളുകൾ ജീവനക്കാർ ഏജന്റുമാർ ഉപഭോക്തൃ പിന്തുണ ഗവേഷണ സംഘം സെയിൽസ് ടീം ഉപഭോക്താവ് പ്രക്രിയ ഓഫ്ലൈനിലും ഓൺലൈനിലും സ്റ്റാൻഡേർഡും കുറവ് സങ്കീർണ്ണവുമാണ് ശാരീരിക തെളിവുകൾ രേഖകൾ ഓഫീസ് സ്ഥാനം ഓഫീസ് പരിസ്ഥിതി ഇവയെല്ലാം സേവന വിപണന മിശ്രിതത്തിന്റെ ഭൌതിക തെളിവുകളാണ് സോഷ്യൽ മാർക്കറ്റിംഗിനുള്ള അധിക മാർക്കറ്റിംഗ് മിശ്രിതം പൊതുവായതാണ് ടാർഗെറ്റ് പ്രേക്ഷകർ പോളിസി നിർമ്മാതാക്കൾ ഗേറ്റ്കീപ്പർമാർ ആന്തരിക ഗ്രൂപ്പ് സെയിൽസ് ടീം പരിശീലന ടീം എന്നിവ പോലുള്ള ബാഹ്യ ഗ്രൂപ്പ് പ്രവേശനക്ഷമതയും ആവശ്യകതയും വർദ്ധിപ്പിക്കുന്നതിന് സമാന ലക്ഷ്യമുള്ള മറ്റ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുമായുള്ള പങ്കാളിത്തം സഹകരണം ആവശ്യമാണ് പ്രാദേശിക ദേശീയ വനിതാ ഗ്രൂപ്പുകൾ കോർപ്പറേറ്റ് സ്പോൺസർമാർ മെഡിക്കൽ ഓർഗനൈസേഷനുകൾ സർവീസ് ക്ലബ്ബുകൾ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയാകാം പ്രധാന സഹകരണ സംഘടന നയം മാറുന്ന പരിതസ്ഥിതിയിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യക്തിഗത പെരുമാറ്റ മാറ്റത്തെ പ്രചോദിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ നയം ചലനാത്മകമായിരിക്കണം അതിനാൽ നയം ചലനാത്മകമായിരിക്കണം കൂടാതെ മീഡിയ അഡ്വക്കസി പ്രോഗ്രാം ഒരു സോഷ്യൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിന് ഫലപ്രദമായ പരിപൂരകമാകും പഴ്സ് സ്ട്രിംഗ് എവിടെനിന്നാണ് പ്രോഗ്രാമിനായി നമുക്ക് ഫണ്ട് ലഭിക്കുന്നത് ഇതിന് സർക്കാർ ഫൌണ്ടേഷനുകൾ വിവിധ നിയമപരമായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്നിവയിൽ നിന്ന് ധനസഹായം നൽകാം അങ്ങനെ സാമൂഹ്യ വിപണനത്തിന്റെ സംഗ്രഹം സാമൂഹിക പ്രശ്നങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോഷ്യൽ മാർക്കറ്റിംഗിലെ പരാജയം സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു അതിനാൽ സോഷ്യൽ മാർക്കറ്റിംഗ് വളരെ നിർണായകമാണ് പരിസ്ഥിതി സംരക്ഷണം സോഷ്യൽ ഫോറസ്ട്രി ഊർജ്ജ സംരക്ഷണം ജീവിത നിലവാരം പാർപ്പിടം സാക്ഷരത തുടങ്ങിയ നിരവധി സാമൂഹിക പ്രശ്നങ്ങൾ സാമൂഹിക വിപണനത്തിന് പ്രസക്തമാണ് അടുത്തതായി നമ്മൾ മറ്റൊരു പൊതു സേവനത്തിലേക്ക് വരുന്നു അതായത് മതപരമായ സേവന വിപണനം അതിനാൽ മതപരമായ സേവന വിപണനം ഒരുതരം ലാഭേച്ഛയില്ലാത്ത വിപണനമാണ് മതപരമായ വിപണനത്തിൽ 2 ചിന്താ വിദ്യാലയങ്ങളുണ്ട് ഒന്ന് ദൈവശാസ്ത്രജ്ഞനും മറ്റൊന്ന് വിപണനക്കാരനുമാണ് അതിനാൽ മതത്തെ നന്നായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് വായിച്ച അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന മതവിശ്വാസികളാണ് ദൈവശാസ്ത്രജ്ഞർ വിപണനക്കാർ ഉണ്ട് മതമേഖലയിൽ വിപണനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് രണ്ടുപേർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് മതപരമായ വിപണനത്തെ വിമർശിക്കുന്നത് പണം പാഴാക്കലാണ് അത് വ്യക്തിജീവിതത്തിലെ ഒരു നിർദ്ദേശമായി പ്രവർത്തിക്കുന്നു അത് നേതൃത്വത്തിന്റെ മനോഭാവത്തിന് വിരുദ്ധമായി മതത്തിന്റെ ലംഘനമാണ് ആളുകൾക്ക് മത സന്ദേശത്തിൽ വിശ്വാസമുണ്ട് തോൽവി തത്വം പ്രയോഗിക്കുന്നു ഉപഭോക്തൃ ദിശാബോധമുണ്ട് സംഗ്രഹം മതപരമായ വിപണനം സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിൽ സംഭാവന ചെയ്യുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് പല കാരണങ്ങളാൽ പലരും അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും സമീപഭാവിയിൽ ഈ മേഖലയിൽ വളർച്ചയുടെ സാധ്യതയുണ്ട് അതിനാൽ സർവീസസ് മാർക്കറ്റിംഗ് കോഴ്സിൽ ഉള്ളത് ഇതൊക്കെയാണ് നിങ്ങൾ വിവിധ അധ്യായങ്ങളിലൂടെ കടന്നുപോയി ഒരു സേവന ബിസിനസ്സ് നടത്താനോ അല്ലെങ്കിൽ ഒരു സേവന ബിസിനസ്സ് സ്ഥാപിക്കാനോ കഴിയുന്ന എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഒരു പ്രധാന മേഖലയും പ്രധാനപ്പെട്ട ജോലിയുമാണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും നല്ലതും മികച്ചതുമായ സേവനങ്ങൾ നൽകാനോ അല്ലെങ്കിൽ നമ്മുടെ സേവനങ്ങൾ ദിനംപ്രതി മെച്ചപ്പെടുത്താനോ ശ്രമിക്കണം എല്ലാവർക്കും നന്ദി ഈ കോഴ്സിലൂടെ കടന്നുപോയതിന് നന്ദി ഇത് സഹായകമാവുമെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു